നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ലെക്ച്ചറുകളിലായി വ്യത്യസ്തയിനം മൈഗ്രേഷനുകളുടെ മൂന്ന് വിവിധ വശങ്ങളെ കുറിച്ച് നാം വിശദമായി ചർച്ച നടത്തിയിരുന്നു മീസെൻകൈമൽ മൈഗ്രേഷന്റെ ഏതാനും ചില ഉദാഹരണങ്ങളും മേല്പറഞ്ഞ മൈഗ്രേഷനെ ആക്റ്റിൻ ഡൈനാമിക്സ് എപ്രകാരം സ്വാധീനിക്കുന്നു എന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അമീബോയ്ഡൽ മൈഗ്രേഷൻ കലക്ടീവ് സെൽ മൈഗ്രേഷൻ കൂടാതെ ലീഡർ കോശങ്ങൾ ഫോളോവർ കോശങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനങ്ങളിലും നാം ഇക്കഴിഞ്ഞ ലെക്ച്ചറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു മാത്രമല്ല എപ്പിത്തീലിയൽ കോശങ്ങളെ പാറ്റേണുകളിലേക്ക് മാത്രമായി ഒതുക്കിനിർത്തുമ്പോൾ പ്രകടമാകുന്ന കൊഹ്യറൻറ് ആംഗുലാർ റൊട്ടേഷൻ എന്ന പ്രതിഭാസത്തെ പറ്റിയും നമ്മൾ പഠനം നടത്തുകയുണ്ടായി ആയതിനാൽ റീഡിങ് അസൈൻമെന്റിന്റെ ഭാഗമായി ഈ കാണുന്ന രണ്ട് പ്രബന്ധങ്ങൾ വായിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ആദ്യത്തേത് PNAS ൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധമാണ് സ്റ്റെൻസിൽ ഉപയോഗപ്പെടുത്തിയുള്ള വൂണ്ട് ഹീലിങ് പഠനങ്ങൾ നിർദ്ദിഷ്ട പ്രബന്ധത്തിലൂന്നിയാണ് നമ്മൾ വിശദീകരിച്ചത് രണ്ടാമത്തെ പ്രബന്ധം കൊഹ്യറൻറ് ആംഗുലാർ റൊട്ടേഷൻ എന്ന വിഷയം വളരെ ഗഹനമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഹ്രസ്വമായ രീതിയിൽ ചർച്ച അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആയതിനാൽ മേല്പറഞ്ഞ പ്രബന്ധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ സ്വമേധയ കടന്നുചെല്ലേണ്ടതുണ്ട് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് തെന്നിനീങ്ങുന്ന പാഠ്യരീതി പിന്തുടരുന്നതിനാൽ ഞാൻ മൈഗ്രേഷൻ എന്ന വിഷയത്തിലുള്ള ചർച്ചകൾക്ക് വിരാമമിട്ട് പതിയെ കോശങ്ങളുടെ സ്വഭാവസവിശേഷതകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് സ്റ്റെം സെല്ലുകളുടെ സ്വഭാവവൈശിഷ്ട്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അടുത്ത രണ്ട് ആഴ്ചകൾക്കുള്ളിൽ വിവിധ രോഗാവസ്ഥകളുടെ മെക്കാനോബയോളജി പഠനങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും മൂലകോശങ്ങളുടെ മെക്കാനൊബയോളജിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ചചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മേല്പറഞ്ഞ മൂലകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് ഇവ പ്രധാനമായും അൺ ഡിഫറെൻഷിയേറ്റഡായ ബയളോജിക്കൽ കോശങ്ങളാണ് ഇവയ്ക്ക് രണ്ട് സുപ്രധാന സവിശേഷതകളുണ്ട് സ്വയം നവീകൃതമാകാനും സ്വമേധയ വിഭജിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് മേല്പറഞ്ഞ വിഭജനത്തിലൂടെ ഇവർക്ക് തങ്ങളുടെ വംശവർദ്ധന മാത്രമല്ല മറിച്ച് മറ്റ് വ്യത്യസ്തയിനം സംയോജിത കലകളുടെ നിയുക്തകോശങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും എന്നതാണ് വസ്തുത ഉദാഹരണത്തിന് സസ്തനികളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്തയിനം മൂലകോശങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് എംബ്രിയോണിക് മൂലകോശങ്ങളാണ് എങ്കിൽ മറ്റൊന്ന് അഡൽറ്റ് മൂലകോശങ്ങളാണ് എന്താണ് ഈ ESC കൾ ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന കോശങ്ങളാണ് മേല്പറഞ്ഞ ESC കൾ ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മേല്പറഞ്ഞ എംബ്രിയോണിക് മൂലകോശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്ലൂറിപൊട്ടന്റ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നവയാണ് അവയ്ക്ക് എക്റ്റോഡെർമ് മീസോഡെർമ് എൻഡോഡെർമ് എന്നിവയിലെ കോശങ്ങൾ ഉൽപാദിപ്പിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ ഒട്ടുമിക്ക ജേർമ് ലെയറുകൾ രൂപീകരിക്കുവാനും ഇവയ്ക്ക് കെല്പുണ്ടെന്ന് സാരം എംബ്രിയോണിക് മൂലകോശങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചില നൈതിക പ്രശ്നങ്ങൾ നിലവിലുണ്ട് മേല്പറഞ്ഞ ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എംബ്രിയോണിക് മൂലകോശങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഭ്രൂണത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നവയാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഘട്ടത്തിൽ നിന്നും കോശങ്ങൾ വേർതിരിച്ചെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം ആ ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആയതിനാൽ റീജെനെറേറ്റിവ് ഔഷധ പ്രയോഗങ്ങളിൽ മൂലകോശങ്ങൾ ഉപയോഗിക്കപ്പെടാത്തതിന്റെ പ്രാഥമിക കാരണം മേല്പറഞ്ഞ നൈതികമായ തടസ്സങ്ങൾ തന്നെയാണ് മേല്പറഞ്ഞതിൽ നിന്നും വിഭിന്നമായി കാണപ്പെടുന്നവയാണ് അഡൽറ്റ് മൂലകോശങ്ങൾ ഇവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വസിക്കുന്നവയാണ് അസ്ഥിയുടെ മജ്ജയിൽ നിന്നും അഡിപോസ് ടിഷ്യൂസിൽ നിന്നും രക്തപ്രവാഹത്തിൽ നിന്നും എന്തിനേറെ പറയുന്നു ജനനത്തിന് ശേഷം ലഭ്യമാകുന്ന അമ്പിലിക്കൽ കോഡിൽ നിന്ന് പോലും നമുക്ക് മേല്പറഞ്ഞ അഡൽറ്റ് കോശങ്ങൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ഇവ ഉപയോഗിക്കുന്നതിന് ധാർമ്മിക പ്രശ്നങ്ങളോ മറ്റ് നൈതിക തടസ്സങ്ങളോ ഒന്നുമില്ല എന്ന ആനുകൂല്യമുണ്ട് മേല്പറഞ്ഞ കോശങ്ങൾ ഓട്ടോലോഗസ് ആയതിനാൽ ഇവ നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുവാൻ സാധിക്കും എന്ന പ്രത്യേകതയുമുണ്ട് ഭാവിയിൽ ഉടലെടുക്കാൻ ഇടയുള്ള ശസ്ത്രക്രിയകൾക്കും കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും മറ്റും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കിവയെ സൂക്ഷിച്ചുവെയ്ക്കാനും സാധിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇവയെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് അവശ്യകോശങ്ങൾ നിർമ്മിച്ച് സാവധാനം ശരീരത്തിലേക്ക് തിരികെ സന്നിവേശിപ്പിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത സ്വന്തം ശരീരത്തിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെട്ടവയായതിനാൽ തന്നെ രോഗപ്രതിരോധശേഷി ഉണർത്തി ശരീരം ഇവയെ തിരസ്കരിക്കുകയില്ല എന്ന സവിശേഷതയും നിലവിലുണ്ട് ആയതിനാൽ ഇവ മേൽ സൂചിപ്പിക്കപ്പെട്ട റീജെനെറേറ്റിവ് ഔഷധ പ്രയോഗങ്ങളുടെ ഒരു വാഗ്ദാനമാണ് അഡൽറ്റ് മൂലകോശങ്ങളെ ES കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടനേകം വ്യത്യാസങ്ങൾ നമുക്ക് ദൃശ്യമാകും മേല്പറഞ്ഞ ES അഥവാ ESC കൾ പ്രധാനമായും പ്ലൂറിപൊട്ടൻറ് വ്യവസ്ഥിതി പിന്തുടരുന്ന കോശങ്ങളാണ് ഈ കാണുന്ന ഏതെങ്കിലും മൂന്ന് സെൽ ലെയറുകളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യാനുള്ള അന്തർലീനമായ സാധ്യയുള്ളതിനാലാണ് നാം ഇവയെ പ്ലൂറിപൊട്ടൻറ് കോശങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ മൂന്ന് ജേർമ് പാളികളിൽ കാണപ്പെടുന്ന ഏതെങ്കിലുമൊരു കോശമായി മാറുവാൻ ഇവയ്ക്ക് കമനീയമായ പാടവമുണ്ടെന്ന് സാരം മേല്പറഞ്ഞ മൂന്ന് ജേർമ് പാളികളിൽ ഒന്ന് എക്റ്റോഡെർമാണ് ആമാശയം ശ്വാസകോശം എന്നിവ എക്റ്റോഡെർമിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് രണ്ടാമത്തേത് മീസോഡെർമാണ് പേശി അസ്ഥി എന്നിവ ഇവയിൽ നിന്നാണ് രൂപപ്പെടുന്നത് മൂന്നാമത്തേത് എൻഡോഡെർമാണ് എപ്പിഡെർമൽ ടിഷ്യൂസ് നാഡീകോശങ്ങൾ ഇവയെല്ലാം മൂന്നാമത്തെ പാളിയിൽ നിന്നാണ് വേർതിരിയുന്നത് പ്ലൂറിപൊട്ടൻറ് വ്യവസ്ഥിതി പിന്തുടരുന്ന ESC കോശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഡൽറ്റ് മൂലകോശങ്ങൾ മൾട്ടിപൊട്ടന്റാണ് എന്നതാണ് വസ്തുത വിവിധതരം കോശങ്ങളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുവാനുള്ള കഴിവ് ഇവയ്ക്കില്ല എന്നതാണ് വാസ്തവം ഉദാഹരണത്തിന് നമുക്ക് ഹെമറ്റോപോയിറ്റിക് മൂലകോശങ്ങളുടെ കാര്യം തന്നെയെടുക്കാം നമുക്ക് ഇവയെ ചുരുക്കി HSC എന്ന് വിശേഷിപ്പിക്കാം ലിംഫോസൈറ്റ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ എന്നിങ്ങനെ രക്തത്തിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക കോശങ്ങളും ഉത്പാദിപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇതിൽ നിന്നും വിഭിന്നമായി അസ്ഥി പോലുള്ള മറ്റ് കോശങ്ങൾ നിർമ്മിക്കാൻ ഇവയ്ക്ക് സാധ്യമല്ല ഇത്തരം വ്യവസ്ഥിതിയെ നാം മൾട്ടിപൊട്ടന്റ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പ്ലൂറിപൊട്ടൻറ് മൾട്ടിപൊട്ടൻറ് എന്നീ വ്യവസ്ഥിതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ടോട്ടിപൊട്ടന്റ് എന്ന ഒരു സാധ്യത കൂടി നിലവിലുണ്ട് സൈഗോട്ട് അഥവാ സിക്താണ്ഡം ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവയ്ക്ക് ബീജകോശം ആകാൻ പോലും സാധിക്കുമെന്നതാണ് പ്രത്യേകത ഇത് കൂടാതെ നാം മനസ്സിലാക്കിയിടത്തോളം മൂലകോശങ്ങളുടെ ശ്രേണിയിൽ ഇത്തരത്തിലുള്ള സൈക്കിളുകൾ നിലവിലുണ്ട് എന്നതാണ് ഇതിലൂടെ കോശങ്ങൾക്ക് സ്വമേധയാ ഡിഫറെൻഷിയേറ്റ് ചെയ്യാനും സ്വയം നവീകരിക്കാനും സാധിക്കുമെന്നതാണ് വസ്തുത വിലങ്ങനെയോ അല്ലെങ്കിൽ താഴോട്ടുള്ള ദിശയിലോ മാത്രമേ നമുക്ക് ഈ കാണുന്ന ട്രീ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഷിന്യ യമാനക എന്ന ഗവേഷകൻ അടുത്തിടെ തന്റെ സെമിനൽ വർക്കിലൂടെ മേല്പറഞ്ഞ വീക്ഷണരീതിയിൽ മാറ്റം നിർദ്ദേശിക്കുകയുണ്ടായി iPS സെൽസ് അഥവാ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ് മൂലകോശങ്ങളെ പരീക്ഷണങ്ങളിലൂടെ സൃഷ്ടിച്ചെടുക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി മേല്പറഞ്ഞ iPS കോശങ്ങളെ നമുക്ക് റീ പ്രോഗ്രാം ചെയ്യാമെന്ന ഒരു പ്രത്യേകതയുണ്ട് ടെർമിനേറ്റ് ഡിഫറെൻഷിയേറ്റഡായ ഒരു ഫൈബ്രോബ്ലാസ്റ് കോശം നമുക്ക് ഇതിനായി ഉപയോഗപ്പെടുത്താം ഇവയെ റീ പ്രോഗ്രാം ചെയ്ത് യഥാർത്ഥ മൂലകോശങ്ങൾ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് വസ്തുത ആയതിനാൽ iPS എന്നത് അക്ഷരാർത്ഥത്തിൽ പക്വമായ കോശങ്ങളെ റീ പ്രോഗ്രാം ചെയ്താൽ ലഭ്യമാകുന്ന പ്ലൂറിപൊട്ടൻറ് കോശങ്ങളാണ് മേല്പറഞ്ഞ iPS സാങ്കേതിക വിദ്യയുടെ കരുത്ത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തത്വനിഷ്ഠമായി അഡൽറ്റ് കോശങ്ങളിൽ നിന്നും iPS കോശങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത ഈ നൂതന ആശയം ഭ്രൂണങ്ങളുടെ ആവശ്യകതയെ മറികടക്കുക മാത്രമല്ല മറിച്ച് രോഗിക്ക് പൊരുത്തപ്പെടുന്ന രീതിയിൽ കോശങ്ങൾ നിർമ്മിച്ചെടുക്കാനും ഉതകുന്നവയാണ് ഒരു രോഗിക്ക് അനുയോജ്യമായ പ്ലൂറിപൊട്ടൻറ് മൂലകോശങ്ങളുടെ ഒരു നിര തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുക എന്ന നേട്ടം തന്നെയാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ അഥവാ വ്യക്തിഗത വൈദ്യശാസ്ത്രചികിത്സ സമ്പ്രദായത്തെ മഹനീയമാക്കുന്നത് iPSC കളെ സംബന്ധിച്ച മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ ഇൻ വിട്രോ മാതൃകയിൽ പഠനം നടത്താൻ സാധ്യമല്ലാത്ത ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രം പ്രകടമാകുന്ന രോഗാവസ്ഥകളെ കൃത്രിമമായി അനുകരിക്കാൻ അവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇതിലൂടെ കാലക്രമേണ ആവശ്യം വരുന്ന വ്യക്തിഗത വൈദ്യശാസ്ത്രചികിത്സ രീതികൾ iPS കോശങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നതാണ് വസ്തുത മൂലകോശങ്ങളുടെ വളരെ വിശാലമായ ഒരു ആമുഖം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന വിവിധയിനം കോശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയവ പേശീകോശങ്ങൾ തന്നെയാണ് കൊഴുപ്പ് കോശം പേശീകോശം നാഡീ കോശം അസ്ഥി കോശം എന്നിവയുടെ ആകൃതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റുള്ളവയിൽ നിന്നും വിഭിന്നമായി അസ്ഥികോശങ്ങളുടെ ന്യൂക്ലിയസ് കൃത്യമായി പ്രസ്തുത കോശത്തിന്റെ മധ്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന വ്യത്യാസം ഇവിടെ ദൃശ്യമാണ് മാത്രമല്ല ഇവയെല്ലാം പരസ്പരം വ്യത്യസ്തമായ ഫീനോടൈപ്പിൽ നിലകൊള്ളുന്നവയാണ് കാര്യം ഇവ ഉത്ഭവിക്കുന്നത് മീസെൻകൈമൽ മൂലകോശം അഥവാ MSC എന്ന ഒരേ മുൻഗാമിയിൽ നിന്നാണെങ്കിലും അവയുടെ സ്ഥൂലരൂപം വിഭിന്നമായിരിക്കും എന്നതാണ് വാസ്തവം കോശങ്ങളുടെ ആകൃതി അവ ഏതിനം കോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഓരോ കോശങ്ങൾക്കും നിയതമായ ഒരു ചുമതല നിർവ്വഹിക്കാനുണ്ടാകും ആയതിനാൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ അവയുടെ ആകൃതിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം തീർത്തും പ്രസക്തമാണ് ഇവ തമ്മിലുള്ള ആശ്രിതത്വത്തിന്റെ സ്വഭാവമെന്താണെന്ന് നാം തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട് കോശങ്ങളുടെ ആകൃതി അതിന്റെ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നതാണോ അതോ പ്രവർത്തനരീതി അവയുടെ ആകൃതിയുടെ രൂപീകരണത്തിൽ മുഖ്യപങ്ക് വഹിക്കുന്നതാണോ എന്ന ചോദ്യവും നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാവുന്നതാണ് ജനിതഘടനയാണ് വസ്തുവിന്റെ ഫീനോടൈപ്പ് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിവുള്ള ഒരു വസ്തുതയാണ് ആയതിനാൽ തന്നെ കോശങ്ങളുടെ അടിസ്ഥാന സ്ഥൂലരൂപത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ മൂലകോശങ്ങളുടെ പ്രവർത്തനശൈലിയിൽ പരിവർത്തനം സാധ്യമാകുമോ എന്ന ചോദ്യം ഇവിടെ തീർത്തും പ്രസക്തമാണ് hMSC അഥവാ ഹ്യൂമൻ മീസെൻകൈമൽ മൂലകോശങ്ങളുടെ പശ്ചാത്തലത്തെ സംബന്ധിക്കുന്ന ഒരു പ്രബന്ധം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് മേല്പറഞ്ഞ കോശങ്ങൾക്ക് അഡിപോസ് അഥവാ കൊഴുപ്പ് കോശങ്ങളായും ഓസ്റ്റിയോബ്ലാസ്റ്റ് അഥവാ അസ്ഥികോശങ്ങളായും രൂപാന്തരപ്പെടുവാൻ സാധിക്കും എന്നതാണ് വസ്തുത മേൽ സൂചിപ്പിച്ച മൂലകോശങ്ങൾ അഡിപോസ് കോശങ്ങൾ അഥവാ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളായി ഉരുത്തിരിയണമോ എന്ന അന്തിമവിധി അവയുടെ "സാന്ദ്രത"യെ ആശ്രയിച്ചിരിക്കും എന്നതാണ് ഈ പരീക്ഷണങ്ങളിലെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളിൽ ഒന്ന് കോശങ്ങളുമായി ബന്ധപ്പെട്ട "വളർച്ച ഘടകങ്ങൾ" മാത്രമാണ് അവയുടെ പ്രതികരണങ്ങളെ നിർണ്ണയിക്കുന്നത് എന്ന അനുമാനത്തിലാണ് പലരും നിലകൊള്ളുന്നത് കോശങ്ങളുടെ സാന്ദ്രതയും അവയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഘടകങ്ങളും തമ്മിൽ ഡിഫറെൻസിയേഷൻ പ്രക്രിയയുമായി സംബന്ധിച്ച് ചില ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് തീർത്തും വ്യക്തമാണ് ഈ കാണുന്ന ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ കോശങ്ങളുടെ സാന്ദ്രത അതിന്റെ ആകൃതിയെ സ്വാധീനിക്കുന്നുണ്ട് അതിന്റെ പരിണിതഫലമെന്നോണം ഇവയുടെ ആകൃതി കോശങ്ങളുടെ ഡിഫറെൻസിയേഷൻ പ്രക്രിയയിൽ സുശക്തമായ പ്രഭാവം പ്രകടമാക്കുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ഈ കാണുന്നതാണ് കോശത്തിന്റെ ഫീനോടൈപ്പ് കോശത്തിന്റെ സാന്ദ്രത ഉപയോഗപ്പെടുത്തി മേല്പറഞ്ഞ ഫീനോടൈപ്പിൽ നാം പരോക്ഷമായി സ്വാധീനം ചെലുത്തുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ കോശങ്ങളുടെ പ്രതികരണങ്ങളെ ആകമാനം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും എന്ന് സാരം ഗവേഷകർ ചില പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായി ഏതാനും ചില hMSC കോശങ്ങളെ കൾച്ചർ ചെയ്ത് 1000 സെൽസ്cm2 അല്ലെങ്കിൽ അതിന്റെ 25 മടങ്ങായി 25000 സെൽസ്cm2 എന്നിങ്ങനെ വിവിധ സാന്ദ്രതകളിൽ പ്ലേറ്റ് ചെയ്യുകയുണ്ടായി മാത്രമല്ല വളർച്ചയ്ക്ക് അനുയോജ്യമായ ഏതാനും ചില ലയനസൂചകങ്ങളും ഇതിന്റെ കൂടെ സംയോജിപ്പിക്കുകയുണ്ടായി അഡിപോജെനിക് മീഡിയ ഉപയോഗപ്പെടുത്തി പരീക്ഷണം നടത്തുകയായതിനാൽ തന്നെ hMSC കോശങ്ങൾ ക്രമേണ അഡിപോസൈറ്റ് കോശങ്ങളായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ മേല്പറഞ്ഞ സൂചകങ്ങൾക്ക് സാധിക്കും എന്നതുപോലെ തന്നെ ഓസ്റ്റിയോജെനിക് മീഡിയയിൽ കാണപ്പെടുന്ന രാസസൂചകങ്ങൾ കോശങ്ങളിൽ ഓസ്റ്റിയോജെനിക് ഡിഫറെൻസിയേഷൻ പ്രേരിപ്പിക്കാൻ കെല്പുള്ളവയാണ് എന്നതാണ് വസ്തുത കുറഞ്ഞ സാന്ദ്രതയിൽ പ്ലേറ്റ് ചെയ്തപ്പോൾ എല്ലാ hMSC കോശങ്ങളും ഓസ്റ്റിയോബ്ലാസ്റ്റുകളായി ഉരുത്തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അത്തരം സാഹചര്യങ്ങളിൽ ചേർക്കുന്ന മീഡിയ്ക്ക് പോലും കാര്യമായ സ്വാധീനം ചെലുത്താനാകില്ല എന്നതാണ് വസ്തുത ഇതിൽ നിന്നും വിഭിന്നമായി 25000 സെൽസ്cm2 സാന്ദ്രതയിൽ അണിനിരത്തപ്പെട്ട കോശങ്ങൾ അഡിപോസൈറ്റുകളായി രൂപാന്തരപ്പെടുന്നതായി നമുക്ക് ദൃശ്യമാകും സമയത്തിന്റെ പ്രവർത്തനമായി കണക്കാക്കുമ്പോൾ താഴ്ന്ന സാന്ദ്രതയിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾ ഉരുത്തിരിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഉയർന്ന സാന്ദ്രതയിൽ അഡിപോസൈറ്റ് കോശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുന്ന സാന്ദ്രതയുടെ നിരക്ക് MSC യുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് കോശങ്ങളുടെ സാന്ദ്രത അവയുടെ ആകൃതിയെ സ്പഷ്ടമായി സ്വാധീനിക്കുന്നു എന്ന വാദം പരിശോധിക്കണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന നിർദ്ദിഷ്ട ഭാഗത്ത് ചില പരീക്ഷണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന പെട്ടിയിൽ ഒരൊറ്റ കോശം പ്ലേറ്റ് ചെയ്യുന്നതും മറിച്ച് പത്ത് കോശങ്ങൾ ഒന്നിച്ച് നിരത്തുന്നതുമായ അവസ്ഥ നമുക്കൊന്ന് കണക്കിലെടുക്കാം മേല്പറഞ്ഞ കോശങ്ങൾക്ക് പരിമിതമായ വ്യാപ്തിയിൽ മാത്രമേ വ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇത്തരത്തിൽ നിബിഡമായി അവ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഉടലെടുക്കുന്ന പരോക്ഷമായ അനന്തരഫലങ്ങളിലൊന്ന് ഈ കാണുന്ന ഭാഗത്ത് കോശങ്ങൾക്ക് വ്യാപിക്കാൻ ലഭ്യമായ ഇടം വളരെ പരിമിതമാണ് എന്നാൽ ഇവിടെയാകട്ടെ കോശങ്ങൾക്ക് പടരാൻ ആവശ്യമായ ഇടം ലഭ്യമാണുതാനും പ്രസ്തുത സന്ദർഭത്തിൽ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന പ്രതിഭാസത്തെ കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കോശങ്ങൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവയുടെ വിഭജനം തടസ്സപ്പെടുന്ന പ്രക്രിയയാണ് മേല്പറഞ്ഞ കോൺടാക്ട് ഇൻഹിബിഷൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോശങ്ങളുടെ സാന്ദ്രത എന്ന ഘടകം അവയുടെ ആകൃതിയെ വ്യക്തമായി സ്വാധീനിക്കുന്നു എന്നതിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത് മേല്പറഞ്ഞ കോശങ്ങളുടെ ആകൃതി അഥവാ വലുപ്പം തന്നെയാണ് സ്വാഭാവികമായും അവയുടെ ഡിഫറെൻസിയേഷൻ ട്രജെക്ടറിയെയും നിർണ്ണയിക്കുന്നത് പ്രസ്തുത പരീക്ഷണത്തിൽ നിന്നും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക സാധ്യമല്ല എന്നതാണ് വസ്തുത കാരണം സാന്ദ്രതയുടെ നിരക്കിൽ വർദ്ധനവുണ്ടാകുമ്പോൾ ഒരു പക്ഷെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾക്കും കോശങ്ങൾ സ്രവിക്കുന്ന സൂചകങ്ങൾക്കും മാത്രമല്ല കോശങ്ങൾ പരസ്പരം ബന്ധത്തിലേർപ്പെടുന്ന പ്രവണതയ്ക്കും ഇതിൽ ഗണ്യമായ പങ്ക് വഹിക്കാനുണ്ടാകും മേല്പറഞ്ഞ ചോദ്യം കോശങ്ങളുടെ ആകൃതിയിൽ മാത്രം കേന്ദ്രീകൃതമായ ഒന്നല്ല മറിച്ച് മേല്പറഞ്ഞ ആകൃതി MSC യുടെ വിധിയെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കൂടി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പരീക്ഷണാർത്ഥം ഗവേഷകർ മൈക്രോ ഫാബ്രിക്കേഷൻ ഉപയോഗപ്പെടുത്തുകയാണുണ്ടായത് ഇത്തരമൊരു ഉപരിതലം പശ്ചാത്തലമാക്കി നിയതമായ പാറ്റേൺ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഫോക്കൽ എഡ്ഹെഷന്റെ പശ്ചാത്തലത്തിൽ മൈക്രോ ഫാബ്രിക്കേഷനെ കുറിച്ച് നാം നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു വളരെ ചെറിയ ബിന്ദുക്കൾ ഉപയോഗിച്ച് ഈ ഐലൻഡുകളെ നിങ്ങൾക്ക് പാറ്റേൺ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അല്പം വ്യാപ്തിയേറിയ ചതുരാകൃതിയിലുള്ള ഇത്തരമൊരു പാറ്റേൺ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും ഈ കാണുന്ന ഭാഗങ്ങൾ എഡ്ഹെസീവും എന്നാൽ ഇവ നോൺ എഡ്ഹെസീവുമായിരിക്കും ഗവേഷകർ ഈ കാണുന്ന ഐലൻഡിന്റെ വലുപ്പത്തിലും വിസ്തീർണ്ണത്തിലുമാണ് മാറ്റം വരുത്തിയത് ഇതാണ് മേല്പറഞ്ഞ ഐലൻഡിന്റെ വലുപ്പം ഈ കാണുന്ന y ആക്സിസിൽ പ്രകടമാകുന്ന ഡിഫറെൻസിയേഷന്റെ തോത് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഐലൻഡിന്റെ വലുപ്പത്തിൽ വർദ്ധനവുണ്ടാകുമ്പോൾ ഗവേഷകർ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ് അതായത് ഈ കാണുന്നത് ഓസ്റ്റിയോജെനിക്കും ഇത് അഡിപോജെനിക്കുമാണ് പ്രബലമായ നിരക്കിൽ അഡിപോജെനിക് ഡിഫറെൻസിയേഷൻ കാഴ്ചവെച്ചിരുന്ന ചെറിയ ഐലൻഡിൽ വലുപ്പം വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഡിഫറെൻസിയേഷന്റെ നിലയിൽ മാറ്റം സംഭവിക്കുകയും അവയിൽ ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷൻ ദൃശ്യമാകുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത ചുരുക്കിപ്പറഞ്ഞാൽ ഐലൻഡിന്റെ വലുപ്പത്തിൽ വർദ്ധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അഡിപോജെനിക് ഡിഫറെൻസിയേഷന്റെ തോത് കുറയുകയും പകരം ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷൻ പ്രബലമാകുകയും ചെയ്യുന്നു എന്നാൽ മേല്പറഞ്ഞ ഐലൻഡിന്റെ വലുപ്പം ചുരുങ്ങുമ്പോൾ ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷൻ കുറയുകയും മറിച്ച് അഡിപോജെനിക് ഡിഫറെൻസിയേഷന്റെ നിരക്കിൽ വർദ്ധനവ് ദൃശ്യമാകുകയും ചെയ്യുന്നു മേല്പറഞ്ഞ കോശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഓസ്റ്റിയോജെനിക്ക് ലീനിയേജിലേക്ക് ഡിഫറെൻഷിയേറ്റ് ചെയുന്ന കോശങ്ങളിൽ ദൃഢമായ സ്ട്രെസ് ഫൈബറുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചെറിയ ഐലൻഡുകളിൽ കാണപ്പെടുന്ന അഡിപോജെനിക് കോശങ്ങളിൽ മേല്പറഞ്ഞ തരത്തിലുള്ള സ്ട്രെസ് ഫൈബറുകൾ ദൃശ്യമല്ല എന്നതാണ് വസ്തുത സ്ട്രെസ് ഫൈബറുകളേക്കാൾ സാമാന്യം പത്തിരട്ടി വലുപ്പമുള്ള കോശങ്ങളുടെ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം ഇവിടെ അനുഭവപ്പെടുന്ന സൈറ്റോസ്കെലിറ്റൽ ടെൻഷന്റെ നിരക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ കുറവാണെന്നും എന്നാൽ ഇവിടെ കൂടുതലാണെന്നും നമുക്ക് പറയാൻ സാധിക്കും മേൽ സൂചിപ്പിച്ച ടെൻഷനും ലീനിയേജ് ഡിഫറെൻസിയേഷനും തമ്മിൽ വ്യക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് അതായത് ടെൻഷന്റെ നിരക്ക് കുറവാണെങ്കിൽ അഡിപോജെനിക് ഡിഫറെൻസിയേഷനും അല്ല ടെൻഷന്റെ നിരക്കിൽ വർദ്ധനവുണ്ടായാൽ ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷനുമാണ് നിലവിൽ വരുക എന്നതാണ് വസ്തുത ടെൻഷനിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നതിലൂടെ ഡിഫറെൻസിയേഷന്റെ നില നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഗവേഷകർ പിന്നീട് ഉന്നയിച്ചത് സൈറ്റോസ്കെലിറ്റൽ ടെൻഷനെ നിയന്ത്രിക്കാൻ ഉതകുന്ന ROCK അഥവാ റോ കൈനേസ് എന്ന സിഗ്നലിങ് സംവിധാനം ഗവേഷകർ ഉപയോഗപ്പെടുത്തുകയുണ്ടായി കൺട്രോൾ വ്യവസ്ഥിതിയിൽ തുടരുന്ന കോശങ്ങളിൽ നിന്നും വിഭിന്നമായി രണ്ട് തുള്ളി Cyto D അല്ലെങ്കിൽ Y27632 എന്ന രാസപദാർത്ഥം കോശങ്ങളിൽ ചേർക്കുകയുണ്ടായി മേല്പറഞ്ഞ Y27632 അക്ഷരാർത്ഥത്തിൽ ഒരു ROCK ഇൻഹിബിറ്ററാണ് എങ്കിൽ Cyto D ആകട്ടെ ആക്റ്റിനെ ഡീപോളിമറൈസ് ചെയ്യുന്ന രാസസംയുക്തമാണ് മേല്പറഞ്ഞ സന്ദർഭത്തിൽ അഡിപോജെനിക് ഡിഫറെൻസിയേഷൻ പതിയെ നിലയ്ക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത മറിച്ച് ടെൻഷന്റെ നിരക്ക് താഴ്ത്തിയാൽ ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷന്റെ തോത് കുറയുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു ആയതിനാൽ ടെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അഡിപോജെനിക് ഡിഫറെൻസിയേഷനും വർദ്ധിക്കുന്നതായി നമുക്ക് വ്യക്തമാകുന്നു ചുരുക്കിപ്പറഞ്ഞാൽ MSC കോശങ്ങളുടെ ഗതി സൈറ്റോസ്കെലിറ്റൽ ടെൻഷനിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് സാരം ഇന്നത്തെ ചർച്ചയ്ക്ക് ഞാനിവിടെ വിരാമമിടുകയാണ് പ്രധാനമായും മീസെൻകൈമൽ മൂലകോശങ്ങളുടെ ആകൃതിയിലും ടെൻഷനിലും മാറ്റം കൊണ്ടുവരുന്നതിലൂടെ പ്രകടമാകുന്ന സ്ഥിതിവിശേഷങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിലൂടെ ഡിഫറെൻസിയേഷനുമായി ബന്ധപ്പെട്ട പാത്ത് വേസിലും പ്രകടമായ വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നത് തീർത്തും വ്യക്തമാണ് ഇതിൽ തന്നെ ടെൻഷന്റെ നിരക്കിൽ വർദ്ധനവ് കൊണ്ടുവരുന്നതിലൂടെ ഓസ്റ്റിയോജെനിക്ക് ഡിഫറെൻസിയേഷനും മറിച്ച് ടെൻഷന്റെ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ അഡിപോജെനിക് ഡിഫറെൻസിയേഷനും സാധ്യമാകും എന്നതാണ് വസ്തുത ഇത്തരത്തിൽ ടെൻഷണറെ നിരക്കിൽ വ്യതിയാനം കൊണ്ടുവരുന്നതിലൂടെ കോശങ്ങളുടെ ആകൃതിയിൽ മാറ്റം വരുത്താനും നമുക്ക് കഴിയും അക്ഷരാർത്ഥത്തിൽ ടെൻഷൻ കുറവ് അനുഭവപ്പെടുന്ന കോശങ്ങൾ സൈറ്റോസ്കെലിറ്റൻ അധികമില്ലാതെ ഉരുണ്ട ആകൃതിയിൽ ഉള്ളവയും എന്നാൽ അധിക ടെൻഷൻ പ്രകടമാകുന്ന കോശങ്ങൾ അല്പം വിസ്തൃതമായ ആകൃതി കൈകൊള്ളുന്നതായും നമുക്ക് ദൃശ്യമാകും എന്നതാണ് വസ്തുത നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി